ഇനി നമുക്ക് തുടക്കം മുതൽ നോക്കാം ഈ വൈദ്യുതപ്രവാഹപാതയിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസിലാക്കാൻ സാധിക്കും ഇവിടെ കാന്തിക ഘടകവും എന്ന് അറിയപ്പെടുന്നു ഇനി ഇത് രണ്ടും നമ്മൾ കൂടുന്നു ഇത് രണ്ടും കൂടുന്നു ഇത് വൈദ്യുത പ്രവാഹം I2 വും I1 ഉം ആകുന്നു ഈ കാണുന്നത് V ഉം ആകുന്നു ഇനി നമ്മൾ അടുത്ത വൈദ്യുതപ്രവാഹപാത നോക്കുക ആണെങ്കിൽ ഇവിടെ Ri അവഗണിക്കപ്പെട്ടിരിക്കുന്നു ഇനി അത് അവിടെ ഇല്ല എന്ന് തന്നെ കരുതുക അങ്ങനെ ആണെങ്കിൽ ഇത് I1 മാത്രവും ഇത് Xm ഉം ബാക്കി എല്ലാം അതുപോലെ തന്നെ ആയിരികുമലോ ഇനി അവസാനിക്കുമ്പോൾ ഈ രണ്ടു ഭാഗങ്ങളും അവഗണിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ I യുടെ തുടക്കത്തിൽ S 1 അതുപോലെ തന്നെ ഇത് r 1 ആണലോ ഇത് x 1 x 2 ഉം ആകുന്നു ഇത് r2 ആണ് r2 2 1S 1 S S1 അത്കൊണ്ട് തന്നെ ഈ ഭാഗം 0 ആണ് ഇനി ആരംഭത്തിൽ ഈ ലോഡ് S1 ആകുന്നു അപ്പോൾ ഈ ഭാഗം 0 ആകുമലോ ഈ സാഹചര്യത്തിൽ ഇത് I തുടങ്ങുമ്പോൾ S 1 എന്ന് വരുന്ന ഭാഗത്തു ആയിരിക്കും അപ്പോൾ ഈ പറയുന്നത് നമുക്ക് ശെരിയായ ഉത്തരം നൽകുകയില്ല ഇങ്ങനെ ഏകദേശ മൂല്യം എന്നുള്ള നിലക്ക് നമ്മൾ ചെയുമ്പോൾ ശെരിയായി വരികയില്ലല്ലോ അത്കൊണ്ട് തന്നെ ഇതും ശെരിയായിരിക്കുകയില്ല ഇവിടെയും S 1 ആണലോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗവും നമ്മൾ പരിഗണിക്കുന്നില്ല ഇതിനെയും നമ്മൾ അവഗണിക്കുക ആണ് അപ്പോൾ S 1 എന്ന് വരുമ്പോൾ എന്ന് വരുന്ന ഭാഗത്തിനെ നമ്മൾ ലളിതമായ സർക്യൂട് എന്ന് വിളിക്കുന്നു ഇപ്പോൾ തുടക്കത്തിൽ S 1 ഉം ലോഡിൻറെ പ്രതിരോധം 0 ഉം ആവുന്നു ഞാൻ പറഞ്ഞിരുന്നു മോട്ടോറിന്റെ വൈദ്യുത പ്രവാഹം തുടക്കത്തിൽ പൂർണ്ണ ലോഡ് വൈദ്യുത പ്രവാഹത്തിനെ കാട്ടിലും 5 മുതൽ 6 തവണ അധികം ആയിരിക്കും എന്ന് ഇതിന് കാരണം തുടക്കത്തിൽ 0 എന്ന് ഉള്ള ഭാഗം ആണ് അതിനാൽ തുടക്കത്തിൽ ഫലപ്രദമായ പ്രതിരോധം കുറയുന്നു അതിനാൽ വൈദ്യുത പ്രവാഹം എന്നാൽ വൈദ്യുത പ്രവാഹം V പ്രതിരോധം Current Vimpedance അതിനാൽ പ്രതിരോധം കുറയുമ്പോൾ വൈദ്യുത പ്രവാഹം വർധിക്കുന്നു ഇതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വൈദ്യുത പ്രവാഹം അധികം ആയിരികുമലോ ഒരു മോട്ടോറിൽ സാധാരണയായി ഇത് മുഴുവൻ ലോഡ് വൈദ്യുത പ്രവാഹത്തിനെ കാട്ടിലും 5 മുതൽ 6 തവണ അധികം ആയിരിക്കും അതായത് തുടക്കത്തിൽ ഉള്ള വൈദ്യുത പ്രവാഹം മുഴുവൻ ലോഡ് വൈദ്യുത പ്രവാഹത്തിനെ കാട്ടിലും 5 മുതൽ 6 തവണ അധികം ആയിരിക്കും അതായത് താരതമ്യേന വൈദ്യുതപ്രവാഹപാതയുടെ മാതൃകയിൽ ഉള്ള വൈദ്യുത ശാഖയിലെ ഊർജസ്വലമായ വൈദ്യുത പ്രവാഹം തുടക്കത്തിൽ അവഗണിക്കപ്പെടുകയും സർക്യൂട്ടിന്റെ മൂല്യം 15C ആയി കുറക്കുകയും ചെയുന്നു അതായത് തുടക്കത്തിൽ തന്നെ ഈ ശാഖയെ നമ്മൾ ലളിതവത്കരിക്കുന്നതിന് വേണ്ടി അവഗണിക്കുക ആണലോ ചെയുന്നത് ഇനി തിരിയാൻ ഉള്ള ശക്തി അഥവാ ടോർക് T തുടക്കത്തിൽ 3 S ആകുമ്പോൾ I തുടക്കത്തിൽ 2 r2ആയിരിക്കും ഇത് നമ്മൾ മുൻപ് നോക്കിയത് ആണ് അത്കൊണ്ട് തന്നെ തിരിയുമ്പോൾ ഉല്പാദിപ്പിക്കപ്പെടുന്ന ശക്തി 3 S I തുടക്കത്തിൽ 2 r2 ആയിരികുമലോ അത്കൊണ്ട് തന്നെ തിരിയുമ്പോൾ ഉള്ള ശക്തി നമ്മൾ മുൻപ് കണ്ടത് പോലെ 3 3 SPG അതുപോലെ PG എന്ന് ഉള്ളത് 3 i 2 I 2 തുടക്കത്തിൽ 2 r2S ആയിരിക്കും പക്ഷെ ഇനി ഇതിൽ I2 വിനു പകരം ഇത് I ആയിരിക്കും അത്കൊണ്ട് ആണ് T start 3 ആണ് ഇതാണ് 44 ആമത് സമവാക്യം ഇനി ലഘുവത്കരിക്കാൻ വേണ്ടിയും ഒരു ഏകദേശ കണക്കിന് വേണ്ടിയും I എന്നുള്ളത് fl മുഴുവൻ ലോഡ് I2 ' f1 ആയിരിക്കും ഇത് നമ്മുടെ ഒരു ഏകദേശ കണക്ക് ആണ് ഈ ഒരു രീതിയിൽ നമ്മൾ കാന്തിക പ്രവാഹത്തിനെ മുഴുവൻ ലോഡ് ഉള്ള സാഹചര്യത്തിലും അവഗണിക്കുക ആണെങ്കിൽ മുഴുവൻ ലോഡിൽ ഉള്ള തിരിവ് എന്നുള്ളത് മുൻപ് ഉള്ളത് പോലെ തന്നെ T fl 3ω I fl 2 r2a Sfl ആയിരിക്കും ഇതെ സമവാക്യം ഉപയോഗിച്ച് മുഴുവൻ ലോഡ് പ്രവാഹത്തിന് പകരം മുഴുവൻ ലോഡ് സ്ലിപ്പിനെ സൂചിപ്പിക്കാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ 3ω S I fl 2 r2S Sfl എന്ന് ആയിരിക്കും ഇതിൽ Sfl എന്നു ഉള്ളത് മുഴുവൻ ലോഡിൽ വരുന്ന സ്ലിപ് ആണ് അതായത് മുഴുവൻ ലോഡ് എന്ന് പറയുമ്പോൾ ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് 10 hp യിൽ ആണെന്ന് വിചാരിക്കുക അതായത് ആ യന്ത്രം പ്രവർത്തിക്കുന്നത് 46 വാട്ടിൽ ആണ് ഈ സാഹചര്യത്തിൽ r എന്നതു 10 വാട്ട് യന്ത്രം ആണെങ്കിൽ അത്പോലെ തന്നെ അത് പ്രവർത്തിക്കുന്നത് 10 കിലോവാട്ടിൽ ആണെങ്കിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുത പ്രവാഹം മുഴുവൻ ലോഡ് പ്രവാഹം ആയിരിക്കും അതുപോലെ വരുന്ന മാറ്റം മുഴുവൻ ലോഡിൽ വരുന്ന മാറ്റം ആയിരിക്കും അതായത് 3ω S I fl 2 r2Sfl ആയിരികുമലോ അതുപോലെ അതിൽ Sfl എന്ന് ഉള്ളത് മുഴുവൻ ലോഡിലെ മാറ്റവും ആയിരിക്കും ഇനി നമ്മൾ 44 ആമത്തെ സമവാക്യത്തെ 46 ആമത്തെ സമവാക്യവുമായി ഹരികുക ആണെങ്കിൽ T start Tfl IstartIfl2 Sfl എന്ന് ലഭിക്കും ഇതിലൂടെ നമുക്ക് ഈ സിദ്ധാന്തം അല്പം മനസിലാക്കാൻ സാധിക്കും ഇതിലൂടെ ഇൻഡക്ഷൻ യന്ത്ര സിദ്ധാന്തം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി നമുക്ക് അല്പം ഉദാഹരണങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ മുൻപ് കണ്ടത് പോലെ അല്പം പ്രാഥമിക വിവരങ്ങൾ മനസിലാക്കി വെക്കുക ആണെങ്കിൽ ബാക്കി നമുക്ക് ഊഹങ്ങളിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇത് ഒരിക്കലും ബുദ്ധിമുട്ട് ഉള്ളതായി തോന്നുക ഇല്ല നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം 50 ഹാർട്സ് വിതരണത്തിൽ നിന്ന് 6 പോൾ ഇൻഡക്ഷൻ യന്ത്രത്തിന് വൈദ്യുതി നൽകുന്നു എന്ന് കരുതുക പൂർണ്ണ ലോഡിലെ റോട്ടർ ഇ എം എഫ് ആവൃത്തി 2 ഹെർട്സ് ആണെങ്കിൽ നമുക്ക് മനസിലാക്കാം f2 Sf ആണ് എന്ന് ഇനി ഇതിൽ നിന്നും പൂർണ്ണ ലോഡ് സ്ലിപ്പും വേഗതയും കണ്ടെത്തുക ഇവിടെ നൽകിയിരിക്കുന്നു P 6 എന്ന് f 50 ഹാർട്സ് അതുപോലെ തന്നെ f 2 ഹാർട്സ് നമുക്ക് അറിയാം f2 Sf ആണ് എന്ന് അതുകൊണ്ട് തന്നെ Sf2f അതിനാൽ f2 2 അതുപോലെ തന്നെ f 50 അതിനാൽ സ്ലിപ് വരുന്നത് 0 04 ആയിരിക്കും nS എന്ന് ഉള്ളത് 120 fP ആയിരിക്കും അപ്പോൾ 120 506 നമുക്ക് ലഭിക്കും അതായത് 1000 rpm അതുപോലെ തന്നെ S n S na n S ആയിരിക്കും അപ്പോൾ S നമുക്ക് അറിയാം 0 അതുപോലെ തന്നെ 1000 rpm ആണലോ അതുകൊണ്ട് യന്ത്രത്തിന്റെ വേഗത 960 rpm ആയിരിക്കും ഇത് വളരെ എളുപ്പം ഉള്ളൊരു ഉദാഹരണം ആയിരുന്നലോ അതുപോലെ തന്നെ രണ്ടാമത്തെ ഉദാഹരണത്തിൽ മൂന്ന് ഘട്ടങ്ങളിൽ ഉള്ള 6 പോൾ 50 ഹാർട്സ് വരുന്ന ഇൻഡക്ഷൻ യന്ത്രത്തിന് ലോഡ് ഇല്ലാതെ ഇരിക്കുമ്പോൾ l സ്ലിപ് ആണ് ഉള്ളത് മുഴുവൻ ലോഡ് ഉള്ളപ്പോൾ 3 ആണ് ഇങ്ങനെ ആണെങ്കിൽ സമന്വയ വേഗത ലോഡ് ഇല്ലാത്തപ്പോൾ ഉള്ള വേഗത മുഴുവൻ ലോഡ് ഉള്ളപ്പോൾ ഉള്ള വേഗത പ്രവർത്തനരഹിതം ആകുമ്പോൾ ഉള്ള റോട്ടർ വൈദ്യുതിയുടെ ആവൃത്തി മുഴുവൻ ലോഡ് ഉള്ളപ്പോൾ ഉള്ള റോട്ടർ വൈദ്യുതിയുടെ ആവൃത്തി എന്നിവ കണ്ടെത്തുക അപ്പോൾ P6 എന്ന് ആകുമ്പോൾ ലോഡ് ഇല്ലാത്തപ്പോൾ ഉള്ള സ്ലിപ് എന്ന് ഉള്ളത് തന്നിരിക്കുന്നത് പോലെ 0 01 ആയിരിക്കും മുഴുവൻ ലോഡിൽ ഉള്ള സ്ലിപ്പും 0 033 എന്ന് നൽകിയിരിക്കുന്നു അതായത് n S എന്ന് ഉള്ളത് ഭൌതികമായി 120 fP ആകുന്നു അതായത് അത് 1000 rpm ആണ് ഇനി നൽകിയിരിക്കുന്ന മൂല്യങ്ങൾ നല്കുമ്പോൾ 120 f50 ഹാർട്സ് and P6 പോൾസ് അതായത് 1000 rpm ഇത് ശെരിയാകുന്നില്ല അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ധ്രുവങ്ങളിൽ ആണ് തെറ്റ് അതുകൊണ്ട് തന്നെ 1000 rpm ശരി ആകുന്നു ഇനി നമുക്ക് ലോഡ് ഇല്ലാത്തപ്പോൾ ഉള്ള വേഗത n 0 എത്ര ആണെന്ന് കണ്ടെത്താൻ നോക്കാം നമുക്ക് അറിയാം ഇത് കണ്ടെത്താൻ നമ്മൾ n S nn എന്ന് ഉള്ള സൂത്രവാക്യം ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇവിടെ nn 0 അപ്പോൾ S0n S n 0n S അല്ലെങ്കിൽ n 01 S0 അതായത് S0 എന്ന് ഉള്ളത് 0 ഇതാണ് ലോഡ് ഇല്ലാത്തപ്പോൾ ഉള്ള സ്ലിപ് അപ്പോൾ n0 എന്ന് ഉള്ളത് 99 rpm ആകുന്നു ഇപ്പോൾ c ആണ് മുഴുവൻ ലോഡിന്റെ വേഗത അതിനാൽ തന്നെ n fl ഉപയോഗിച്ചു നമുക്ക് പ്രത്യയം ആകുന്ന 0fl ഇനെ മാറ്റാവുന്നതാണ് ഇനി n fln S1 Sfl ആകുന്നു ഇത് 1000 ആണ് അതുപോലെ Sfl എന്ന് ഉള്ളത് 0 അതിനാൽ തന്നെ നമുക്ക് 970 rpm എന്ന് ലഭിക്കുന്നു ഇനി റോട്ടർ വൈദ്യുതപ്രവാഹത്തിന്റെ നിശ്ചലമായിരിക്കുമ്പോൾ ഉള്ള പ്രത്യയം ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് അതായത് f2 എത്ര ആണെന്നു കണ്ടെത്തണം നിശ്ചലമായിരിക്കുമ്പോൾ S S 1 അതിനാൽ തന്നെ സ്വാഭാവികമായും റോട്ടർ പ്രത്യയവും വൈദ്യുതപ്രവാഹ പ്രത്യയവും 50 ഹാർട്സ് ആയി നിശ്ചലമാകുമ്പോൾ S 1 ആയിരിക്കും അതിനാൽ തന്നെ റോട്ടർ നിശ്ചലമായിരിക്കുമ്പോൾ ഉള്ള റോട്ടർ സ്ലിപ് എന്ന് ഉള്ളത് 1 ആയിരിക്കും അപ്പോൾ റോട്ടർ വൈദ്യുതപ്രവാഹത്തിന്റെ മുഴുവൻ ലോഡിൽ ഉള്ള ആവൃത്തി f2Sfl എന്ന് ആയിരിക്കും അതായത് മുഴുവൻ ലോഡിൽ റോട്ടർ 0 03 എന്ന് ആയിരിക്കും മാത്രമല്ല ഇവിടെ ഇത് 50 ആണ് അതിനാൽ 1 5 ഹാർട്സ് ആയിരിക്കും ഇനി മൂന്നാം ഉദാഹരണം എന്തെന്നാൽ ഒരു 6 പോൾ 50 ഹാർട്സ് ഉള്ള ഇൻഡക്ഷൻ യന്ത്രം മുഴുവൻ ലോഡിൽ പ്രവർത്തിക്കുമ്പോൾ 160 ന്യൂട്ടൺ മീറ്ററിൽ തിരിയും റോട്ടർ e m f S 120 പ്രാവശ്യം മുഴുവൻ ആയി ഒരു മിനിറ്റിൽ തിരിയും ഇതിൽ നിന്നും റോട്ടോറിന്റെ ആവൃത്തി കണ്ടെത്തുക ഇതിൽ നിന്നും യന്ത്രദണ്ഡിന്റെ വൈദ്യുത ഉത്പാദനം ഞാൻ പറഞ്ഞത് പോലെ യന്ത്രസംബദ്ധമായ ശക്തി ആണെന്ന് അറിയാമലോ യന്ത്രത്തിലെ ടോർക്കിന്റെ നീക്കം അനുസരിച്ചു ഘർഷണത്താൽ നഷ്ടപെട്ടത് 1 0 ന്യൂട്ടൺ മീറ്റർസ് ആണ് റോട്ടർ തിരിയുമ്പോൾ ഉണ്ടാകുന്ന കോപ്പർ നഷ്ടം യന്ത്രത്തിലേക്ക് ഉള്ള നിക്ഷേപണം കാര്യക്ഷമത എന്നിവ കണക്കുകൂട്ടുക സ്റ്റേറ്റർ നഷ്ടം 800 വാട്ട്സ് എന്ന് നൽകിയിട്ടുണ്ട് അതിനാൽ f2Sf അപ്പോൾ ഇവിടെ പറയുന്ന f2Sf എന്ന് ഉള്ളത് ഒരു മിനുറ്റിൽ ഉള്ള 120 മുഴുവൻ ഭ്രമണത്തിന്റെ ആണ് അപ്പോൾ റോട്ടർ ആവൃത്തി എന്നത് 12060 എന്ന് ആയിരികുമലോ അപ്പോൾ എത്ര ഭ്രമണം ആണ് ഒരു നിമിഷത്തിൽ ഉണ്ടാകുന്നത് 2 ഹാർട്സ് ഭ്രമണം ആയിരികുമലോ ഇനി S 2f ആയിരിക്കും എന്ത്കൊണ്ടെന്നാൽ Sf2 അതിനാൽ S250 അതായത് 4 അല്ലെങ്കിൽ 0 04 ഇനി n S120 fP P എന്ന് ഉള്ളത് 6 ആണ് f എന്ന് ഉള്ളത് 50 ആണ് അതിനാൽ തന്നെ n S1000 rpm ആയിരിക്കും അടുത്തത് റോട്ടർ വേഗത n1 S n S അതായത് 1 0 04 1000 അപ്പോൾ 960 rpm അതുകൊണ്ടുതന്നെ ω2 pi n നമുക്ക് വേണ്ടത് ഭ്രമണം ആയത് കൊണ്ട് ω വേണ്ടി നമുക്ക് വേണ്ടത് 2 pi n60 ആണ് അപ്പോൾ നമുക്ക് ലഭിക്കുക ഒരു നിമിഷത്തിൽ 100 53 റാഡിയൻ ആയിരിക്കും ഇനി യന്ത്രദണ്ഡിന്റെ വൈദ്യുതഉല്പാദനം ആവശ്യമുള്ള ഭ്രമണം റോട്ടോറിന്റെ വേഗത shaft power output useful torque rotor speed അപ്പോൾ ആവശ്യമുള്ള ഭ്രമണം നൽകിയിരിക്കുന്നത് 160 റോട്ടർ വേഗത നമുക്ക് ലഭിച്ചു 100 അപ്പോൾ ഇതാണ് ഇവിടെ ആവശ്യമുള്ള ഭ്രമണം ഇവിടെ നൽകിയിരിക്കുന്നത് 160 ന്യൂട്ടൺ മീറ്റർ എന്നാണലോ അതായത് 16 085 കിലോവാട്ട് ഇനി യാന്ത്രികമായ ഉല്പാദിപ്പിക്കപ്പെട്ട ശക്തി P m ആവശ്യമുള്ള ഭ്രമണം നഷ്ടം റോട്ടോറിന്റെ വേഗത mechanical part developedP museful torque losses rotor speed അതായത് ആവശ്യമുള്ള ഭ്രമണം 160 എന്ന് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ നഷ്ടം എന്ന് ഉള്ളത് 10 ആണ് അപ്പോൾ 160 10 ന്യൂട്ടൺ മീറ്റർ റോട്ടോറിന്റെ വേഗത 100 അപ്പോൾ അതായത് P m 17 09 കിലോവാട്ട് ഇനി അടുത്ത ഭാഗത്തിൽ P m നമുക്ക് അറിയാം 3 I2 2 r2 1S 1 ആണ് യന്ത്രസംബന്ധമായ ഓരോ ഉത്പാദനം അപ്പോൾ 3 I2 2 r2എന്നതിനെ നമുക്ക് S P m1 S എന്ന് എഴുതാം അതായത് ഇതിൽ ഉള്ളത് ആദ്യം 3 ആണ് പിന്നീട് I2 2 r2അതിന് ശേഷം 1 SS എന്ന് ആണലോ അതായത് ഈ ഭാഗത്തു S P m 1 S എന്ന് ആയിരിക്കും അപ്പോൾ റോട്ടോറിന്റെ കോപ്പർ നഷ്ടം എന്ന് ഉള്ളത് 3 I2 r2ആയിരിക്കും അതുകൊണ്ട് തന്നെ റോട്ടോറിന്റെ കോപ്പർ നഷ്ടം കണക്കുകൂട്ടാൻ ഉള്ള സൂത്രവാക്യം S P m1 S ആയിരിക്കും അപ്പോൾ റോട്ടോറിന്റെ കോപ്പർ നഷ്ടം എന്ന് ഉള്ളത് 17 09 ആയിരിക്കും അതായത് P m17 അപ്പോൾ 0 041 0 നമുക്ക് 0 712 കിലോവാട്ട് എന്ന് ലഭിക്കും ഇനി യന്ത്രത്തിലേക്കുള്ള നിക്ഷേപണം എന്ന് ഉള്ളത് യന്ത്രത്തിന്റെ വൈദ്യുത ഉത്പാദനം റോട്ടോറിന്റെ നഷ്ടവും പൂർണമായുള്ള സ്റ്റേറ്റർ നഷ്ടവും ആയിരിക്കും input to the motor input to the motor mechanical power output the rotor couple loss the total stator loss പൂർണമായുള്ള സ്റ്റേറ്റർ നഷ്ടം എന്ന് ഉള്ളത് 800 വാട്ട് എന്ന് നൽകിയിരിക്കുന്നു ഇനി ഇതിനെ കിലോവാട്ടിലേക്ക് മാറ്റുമ്പോൾ 17 712 800 വാട്ട് എന്ന് ഉള്ളത് 0 2 കിലോവാട്ട് ആയി മാറുന്നു കൂടുമ്പോൾ 18 602 കിലോവാട്ട് എന്ന് ലഭിക്കുന്നു അതായത് കാര്യക്ഷമത ഉത്പാദനം നിക്ഷേപണം efficiency outputinput അപ്പോൾ ഉത്പാദനം എന്ന് ഉള്ളത് നമ്മൾ കണ്ടു 16 085 ആണ് അതുപോലെ നിക്ഷേപണം 18 608 ആണ് അതായത് 86 47 കാര്യക്ഷമത ആണ് കാണാൻ സാധിക്കുന്നത് ഇനി ഉള്ളത് ഒരു സ്ക്വിറൽ കൂട് ഇൻഡക്ഷൻ യന്ത്രത്തിന്റെ സ്ലിപ് എന്ന് ഉള്ളത് 4 ആണ് മുഴുവൻ ലോഡിൽ തുടക്കത്തിൽ ഉള്ള വൈദ്യുതഉല്പാദനം മുഴുവൻ ലോഡ് വൈദ്യുതഉല്പാദനത്തിനെ കാട്ടിലും അഞ്ചു ഇരട്ടി ആണ് സ്റ്റേറ്റർ പ്രതിരോധവും കാന്തിക വൈദ്യുതിയും അവഗണിക്കാവുന്നതാണ് അവഗണിക്കുക ആണെങ്കിലും മാക്സിമം ഭ്രമണവും നടക്കുമ്പോൾ ഉണ്ടാവുന്ന സ്ലിപ്പും കണക്കുകൂട്ടപ്പെടുമലോ ഇപ്പോൾ നമുക്ക് അറിയാം തുടക്കത്തിൽ ഉള്ള വൈദ്യുതഉല്പാദനം 2V 2r2 2 x 2 2 ആണ് എന്ന് എന്തുകൊണ്ടെന്നാൽ തുടക്കത്തിൽ സ്ലിപ് 1 ആണ് ഇനി ഞാൻ പിന്നെയും പിന്നെയും സൂത്രവാക്യം എഴുതുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഇതെല്ലം മുൻപ് തന്നെ നല്കിയതാണലോ അതുപോലെ തന്നെ ഇവിടെ ഇത് തുടക്കത്തിൽ ആണ് അതുപോലെ മുഴുവൻ ലോഡിൽ I fl 2 മുഴുവൻ ലോഡ് വൈദ്യുതഉല്പാദനം എന്ന് ഉള്ളത് V 2r2Sfl 2 x 2 2 ആയിരിക്കും എന്തുകൊണ്ടെന്നാൽ തുടക്കത്തിൽ സ്ലിപ് 1 ആണെന്ന് ഇവിടെ ഉണ്ടലോ ഇനി നമ്മൾ 1 ആം സമവാക്യവും 2 ആം സമവാക്യവും ഹരികുമ്പോൾ നമുക്ക് I start 2I startI fl 2 എന്ന് ലഭിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഭ്രമണത്തിനായി നമുക്ക് r2എന്നതിന് വേണ്ടി r2S max x 2 എന്ന് ഉള്ള സമവാക്യം ഉപയോഗിക്കാം എന്തുകൊണ്ടെന്നാൽ നമുക്ക് അറിയാം r2S max T ആണെന്ന് അതുകൊണ്ടുതന്നെ r2S max T x 2 ഇനി നമ്മൾ ഇതിന് പകരമായി r2S max T x 2 ഉപയോഗിക്കും അതിനാൽ ആണ് ചുവന്ന മഷി കൊണ്ട് പകരം ഉപയോഗിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഇനി പകരം കൊടുത്തു ഈ സമവാക്യത്തെ ലളിതമാകുമ്പോൾ ഈ കാണുന്ന സമവാക്യം പോലെ ആകുമലോ ഇനി നമ്മുടെ കൈയിൽ ഉള്ള അളവുകൾ I സ്റ്റാർട്ട് എന്ന് ഉള്ളത് മുഴുവൻ ലോഡ് വൈദ്യുതഉല്പാദനത്തെക്കാളും 5 ഇരട്ടി ആണ് അപ്പോൾ I start 2I fl 2 എന്ന് ഉള്ളത് 25 ലഭിക്കും ഇനി I സ്റ്റാർട്ട് എന്ന് ഉള്ളത് 5 ആകുമ്പോൾ I fl അതായത് മുഴുവൻ ലോഡ് സ്ലിപ് എന്ന് ഉള്ളത് 0 04 എന്ന് നൽകിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ എല്ലാ അളവുകളും എഴുതുമ്പോൾ S ഇന് രണ്ടു മൂല്യങ്ങൾ ലഭിക്കും ഇതിൽ ഒരെണ്ണം പ്രായോഗികം അല്ലെങ്കിലും മറ്റേത് നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കും ഇത് ലളിതവത്കരിക്കുമ്പോൾ നമുക്ക് Smax0 2 എന്ന് ലഭിക്കും എന്ത്കൊണ്ടെന്നാൽ മറ്റേ മൂല്യം പ്രയോഗികമലാലോ അപ്പോൾ S ഇൽ നിന്നും ഭ്രമണത്തിന്റെ സമവാക്യത്തിൽ നിന്നും T max3ω S0 5 V 2x 2 എന്ന് ലഭിക്കും ഇതിനെ പറ്റി വിശദമായി ഇവിടെ ഉള്ള 37 ആം സമവാക്യത്തിൽ ഉണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കും T മുഴുവൻ ലോഡ് ഭ്രമണത്തിൽ 3ω S ഇതിനെ പറ്റി വിശദമായി 35 ആം സമവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഇതെല്ലം നമ്മൾ മനസ്സിൽ വെക്കേണ്ടതാണ് ഇനി കിട്ടിയിരിക്കുന്ന 4 ആം സമവാക്യവും 5 ആം സമവാക്യവും ഹരികുക അപ്പോൾ നമുക്ക് T maxT fl എന്ന് ലഭിക്കും ഇനി പകരമുള്ള മൂല്യങ്ങൾ നൽകുമ്പോൾ T maxT fl ഇനി നമ്മൾ r2 r 2 ഇന് പകരം മൂല്യം നൽകുക x max T x 2 എന്ന് ഉള്ളതിനെ പകരം നൽകി ലഘുവത്കരിക്കുക പകരം നൽകുമ്പോൾ നമുക്ക് ഈ സമവാക്യം ലഭിക്കും ഇനി Smax എന്ന് ഉള്ളതിനെ നൽകുമ്പോൾ 0 2 ലഭിക്കും നമുക്ക് അറിയാം മുഴുവൻ ലോഡ് സ്ലിപ് എന്ന് ഉള്ളത് 0 4 ആണ് എന്ന് അതായത് ഇത് സ്ലിപ്പിന്റെ ഉപയോഗത ആണ് അതുപോലെ തന്നെ ലഘുവത്കരിക്കുമ്പോൾ ഇത് മുഴുവൻ ലോഡിന്റെ തിരിവിനെ കാട്ടിലും 2 6 തവണ അധികം ആയിരിക്കും ഇനി നമുക്ക് 47 ആം സമവാക്യത്തിൽ നിന്ന് മനസിലാക്കാൻ സാധിച്ചു T startT fl എന്നുള്ളത് അപ്പോൾ I startI I fl5 അതായത് 5 2 Sfl എന്ന് ഉള്ളത് 0 അതായത് തുടക്കത്തിലെ ഭ്രമണം തന്നെ ഇവിടെ മുഴുവൻ ലോഡിന്റെ ഭ്രമണം ആയി മാറുക ആണലോ ഇനി അടുത്ത 5 ആം ഉദാഹരണം ആണ് ഒരു 3 ഘട്ടം ഉള്ള ഇൻഡക്ഷൻ യന്ത്രത്തിലേക്ക് ഉള്ള വൈദ്യുത നിക്ഷേപണം 60 കിലോവാട്ട് ആണ് സ്റ്റേറ്ററിൽ നിന്ന് നഷ്ടം ആവുന്നത് 1 കിലോവാട്ട് ആണ് യന്ത്രം പ്രവർത്തിക്കുന്നത് 3 സ്ലിപ്പിൽ ആണ് എങ്കിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന മുഴുവൻ യാന്ത്രിക ശക്തിയും ഓരോ ഘട്ടത്തിലെ റോട്ടർ കോപ്പർ നഷ്ടവും കണ്ടെത്തുക അപ്പോൾ റോട്ടറിന്റെ നിക്ഷേപണം സ്റ്റേറ്ററിന്റെ നിക്ഷേപണം സ്റ്റേറ്ററിൽ നിന്നും വായുവിടവിന്റെ കാരണത്താൽ തുടക്കത്തിൽ നഷ്ടമാവുന്ന വൈദ്യുതിപ്രവാഹം rotor inputstator input stator losses in the beginning of the air gap power at that time അതായത് PG എന്ന് ഉള്ളത് 60 1 59 കിലോവാട്ട് ആയിരിക്കും അതുപോലെ സ്ലിപ് എന്ന് ഉള്ളത് 0 അപ്പോൾ പൂര്ണമായുള്ള യാന്ത്രിക ശക്തി P m എന്ന് ഉള്ളതിൽ നിന്നും 1 S PG എന്ന് ലഭിക്കും അതായത് 57 2 കിലോവാട്ട് എന്ന് ലഭിക്കും ഇനി റോട്ടോറിന്റെ കോപ്പർ നഷ്ടം കണ്ടുപിടിക്കാൻ ഉള്ള സമവാക്യവും നമ്മൾ കണ്ടതാണ് അതായത് S PG അപ്പോൾ 0 03 59 ഇതിൽ നിന്നും നമുക്ക് ഇവിടെ നീല മഷിയിൽ കാണിച്ചിരിക്കുന്ന പോലെ 1770 വാട്ട് എന്ന് ലഭിക്കും അപ്പോൾ റോട്ടോറിന്റെ കോപ്പർ നഷ്ടം എന്ന് ഉള്ളത് 3 ചെയുമ്പോൾ 590 വാട്ട് എന്ന് കിട്ടും ഇത് എളുപ്പമാണ് കുറച്ച സമവാക്യം മനസ്സിൽ വെക്കേണ്ടതുണ്ട് അടുത്തത് 6 ആം ഉദാഹരണം ആണ് 500 വിദ്യുച്ഛക്തിമാത്ര ഉള്ള ഒരു 3 ഘട്ട ഇൻഡക്ഷൻ യന്ത്രത്തിന്ന് ഇത്രയുംതന്നെ സ്റ്റേറ്റർ പ്രതിരോധ ശേഷിയും ഉണ്ട് അപ്പോൾ സമമായി വരുന്ന റോട്ടർ പ്രതിരോധവും തുല്യം ആയിരികുമലോ അനങ്ങാതെ ഇരിക്കുമ്പോൾ ഉള്ള അവസ്ഥ ആകുമ്പോൾ സ്ലിപ് 1 ആകുമ്പോൾ കാന്തിക പ്രവാഹം 36 അംപീയെർ ആണ് മുഴുവൻ നഷ്ടം എന്ന് ഉള്ളത് 15000 വാട്ട് ആണ് യാന്ത്രിക നഷ്ടം എന്ന് ഉള്ളത് 750 വാട്ട് ആണ് അങ്ങനെ എങ്കിൽ സ്ലിപ് 2 ആയിരിക്കുമ്പോൾ ഉള്ള ഉല്പാദന കാര്യക്ഷമതയും ശക്തിയുടെ ഘടകവും കണ്ടെത്തുക ഇതാണ് ചോദ്യം നമ്മൾ ഇവിടെ ഒരു ലളിതമായ വൈദ്യുതപ്രവാഹ പാത സൃഷ്ടിച്ചിരിക്കുക ആണ് ഈ ഒരു സഞ്ചാര ശാഖ നമ്മൾ തുടക്കത്തിൽ തന്നെ ലംബമായി കൊടുത്തിരിക്കുന്നു കൂടാതെ ഇതെല്ലം ബാക്കി ഉള്ള ഭാഗങ്ങൾ ആണ് ഇതാണ് ലോഡിനെ പ്രതിരോധിക്കുന്ന ഭാഗം ഇതാണ് റോട്ടർ ഭാഗം ഇതാണ് സ്റ്റേറ്റർ ഭാഗം പിന്നെ ഇത് ആണ് കൈ ശാഖ ആയി ലളിതമായ വിശകലനത്തിനായി വരുന്നത് ഇതിന്റെ നടുക്ക് കൊണ്ട് ഇടുകയാണെങ്കിലും ശാഖയെ മാറ്റാൻ നോക്കുക ആണെങ്കിലും മൂല്യനിർണയം ബുദ്ധിമുട്ടുള്ളതായി മാറും അതിനാൽ ലഘുവത്കരിക്കാനായി ആണ് ഈ വൈദ്യുതപ്രവാഹ പാത പണിതിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലോഡ് പ്രതിരോധിക്കുന്ന ഭാഗം അതായത് r2S എന്ന് ഉള്ളതിനെ നമ്മൾ r2 r2 1 SS എന്ന് ആക്കി മാറ്റുന്നു ഇവിടെ നൽകിയിട്ടുണ്ട് ഇത് ഒരു 3 ശാഖാ ചാലകശക്തി ഘടകം ആണെന്ന് അതിനാൽ തന്നെ ഘടകത്തിന്റെ ചാലകശക്തി എന്ന് ഉള്ളത് 5 √3 അപ്പോൾ 288 7 വിദ്യുച്ഛക്തിമാത്ര ആണ് നമുക്ക് ലഭിക്കുക കോണിന്റെ 0 വിദ്യുച്ഛക്തിമാത്ര ആയി ആണ് നമ്മൾ ഇത് എടുക്കുന്നത് ഇനി സ്ലിപ് നൽകിയിരിക്കുന്നു 0 അതുപോലെ തന്നെ r 1r2 0 06 ഒഹ്മ് ആണെന്നും x 1x 2 0 21 ഒഹ്മ് എന്നും ചോദ്യത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നു ഇനി മുഴുവൻ ആയി ഉള്ള പ്രതിരോധം കണക്കുകൂട്ടാൻ ആയി നമ്മൾ ഇത് രണ്ടും കൂട്ടുക ആണ് വേണ്ടത് r2 1 SS അങ്ങനെ കൂടുമ്പോൾ വൈദ്യുതപ്രവത്തിന്റെ പൂർണ പ്രതിരോധം 3 19 എന്ന് ലഭിക്കുന്നു ഇതിന്ന് പകരമായി നമുക്ക് r2S എന്ന് ഉള്ള രീതിയിൽ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതും ശെരി ആണ് 19 എന്ന കോണിൽ 7 56 o ഒഹ്മ് എന്ന് നമുക്ക് ലഭിക്കുന്നു അതായത് 5 6 3 156o o എന്ന കോണിൽ ആണലോ അതും നമുക്ക് Om ആയി ലഭിക്കുന്നു ഇപ്പോൾ നമുക്ക് കാണാം I2VZ ആണ് അതായത് ഇത് V ആണ് ഇത് Z അതും 90 5 കോണിൽ 7 56 o വലത് അംപീയെർ ഇവിടെ അംപീയെർ എന്ന് എഴുതിയിട്ടില്ലെങ്കിലും ഇത് അംപീയെർ ആണ് അതിനാൽ ഇവിടെ I2 എന്ന് ഉള്ളത് യഥാർത്ഥ ഭാഗവും ഇത് സാങ്കല്പിക ഭാഗവും ആകുന്നു ഇനി I mVj X m ഇനി V X കോണിൽ നിന്നും 90 പക്ഷെ ഇവിടെ നൽകിയിരിക്കുന്നത് 36 അംപീയെർ എന്ന് ആണ് അപ്പോൾ I m j 36 അംപീയെർ എന്ന് നമുക്ക് മനസിലാക്കാം എന്തുകൊണ്ടെന്നാൽ ഇത് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട് അതിനാൽ കണക്ക് കൂട്ടുന്നതിന്ന് പകരം നമുക്ക് നേരിട്ട് I m j 36 അംപീയെർ എന്ന് എഴുതാം ഇനി ഇവിടെ നൽകിയിരിക്കുന്നു പൂർണമായ നഷ്ടം എന്ന് ഉള്ളത് 1500 വാട്ട് ആണ് എന്ന് അതായത് ഓരോ ഘട്ടത്തിലും ഉള്ള പൂർണ നഷ്ടം 500 വാട്ട് ആണ് അതിനാൽ തന്നെ പൂർണം ആയ നഷ്ടം നമുക്ക് V I500 എന്ന് എഴുതാം അതിനാൽ വൈദ്യുതപ്രവാഹം ആകുന്ന 500 V ഇലെ നഷ്ടമായി പോകുന്ന ഭാഗത്തെ I i എന്ന് വിശേഷിപ്പിക്കാം അതിനാൽ തന്നെ 500 288 7അതായത് 1 73 അംപീയെർ എന്ന് നമുക്ക് ലഭിക്കുന്നു അതിനാൽ തന്നെ I 0I i I m എന്ന് ഉള്ളത് 1 73 j 36 അംപീയെർ ആകുമലോ അതിനാൽ തന്നെ I 1I 0 I 0 I2 ഇത് നമുക്ക് വൈദ്യുതപ്രവാഹ പാതയിൽ നിന്ന് മനസിലാക്കാൻ സാധിക്കും ഇത് നമ്മൾ കൂട്ടുക ആണെങ്കിൽ നമുക്ക് I 1103 2 കോൺ 27 7o അംപീയെർ എന്ന് ലഭിക്കും ഇനി ശക്തിയുടെ ഘടകം എന്ന് ഉള്ളത് 27 7 89 എന്ന് ഉള്ളതിന്റെ കോസൈൻ ആയിരിക്കും എന്തുകൊണ്ടെന്നാൽ വിദ്യുതചാലകശക്തിയുടെ കോൺ എന്ന് ഉള്ളത് 0 ആയിട്ട് ആണ് എടുക്കുന്നത് മാത്രമല്ല ഇതാണ് സ്റ്റേറ്റർ വൈദ്യുതപ്രവാഹം I 1 എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വിദ്യുതചാലകശക്തിയുടെയും വൈദ്യുതപ്രവാഹത്തിന്റെയും ഇടയിൽ ഉള്ള കോൺ എന്ന് ഉള്ളത് 27 അതിനാൽ ഇവിടെ ഉള്ള ശക്തിയുടെ ഘടകം എന്ന് ഉള്ളത് 1 89 ആയിരികുമലോ ഇനി റോട്ടറിന്റെ കോപ്പർ നഷ്ടം എന്ന് ഉള്ളത് 3 I2 2 r2 ഇതിൽ നിന്നും നമുക്ക് 1 52 കിലോവാട്ട് എന്ന് ഉത്തരം ലഭിക്കുന്നു ലോഡ് പ്രതിരോധം എന്ന് ഉള്ളത് നമുക്ക് അറിയാം r2 1S 1 ആണെന്ന് ഇനി പൂർണമായ യാന്ത്രിക ശക്തിയുടെ ഉത്പാദനം 3 I2 2 r2 1 S ആയിരിക്കും ഇനി ഈ ഭാഗം കണ്ടെത്താനായി നമ്മൾ നോക്കുന്നു റോട്ടറിന്റെ കോപ്പർ നഷ്ടം 1 SS നമുക്ക് നേരത്തെ തന്നെ റോട്ടറിന്റെ കോപ്പർ നഷ്ടം 1 52 ആണെന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് 1 0 02 എന്ന് ലഭിക്കുന്നു സ്ലിപ് ഇവിടെ 0 02 ആണ് അതായത് 74 5 കിലോവാട്ട് ആകുമലോ ഇനി യാന്ത്രികമായ നഷ്ടം എന്ന് ഉള്ളത് 750 വാട്ട് ആണ് ഇനി പൂർണ ഉത്പാദനം എന്ന് ഉള്ളത് 74 75 കിലോവാട്ട് ആയിരികുമലോ ഇനി നിക്ഷേപണം എന്ന് ഉള്ളത് 3 ഘട്ടം ആയതിനാൽ തന്നെ 3 V I 1 കോസ് ഫൈ അതായത് 3 500√3 103 2 ഇത് എന്ന് ഉള്ളത് I 1 ശക്തിയുടെ ഘടകം 0 ഇനി നമ്മൾ ചെയേണ്ടത് ഇത് ഇത് ചെയുമ്പോൾ √3 ഉം 3 ഉം ആയിരിക്കും അപ്പോൾ √3 V ഇത് I ആയിരിക്കും ഇത് കോസ് ഫൈ ആയിരിക്കും ഇതിനെ ഇനി 1000 കൊണ്ട് ഹരികുക അപ്പോൾ നമുക്ക് 10 3 എന്ന് ലഭിക്കും ഇത് കിലോവാട്ടിൽ ആയിരികുമലോ ഇപ്പോൾ നമുക്ക് കാര്യക്ഷമത എന്ന് ഉള്ളത് ഉത്പാദനം നിക്ഷേപണം efficiency outputinput എന്ന് ലഭിക്കും ഇതാണ് ഉത്പാദനം ഇത് നിക്ഷേപണം അപ്പോൾ ഇത് 0 927 ആയിരിക്കും കാര്യക്ഷമത ഇനി ഉള്ളത് 7 ആമത്തെ ഉദാഹരണം ആണ് അതായത് ഒരു 25 hp ഹോഴ്സ് പവർ 6 പോൾ 50 ഹാർട്സ് സ്ലിപ് റിങ് ഇൻഡക്ഷൻ യന്ത്രം മുഴുവൻ ലോഡിൽ ഓടുന്നത് 960 rpm ഇൽ ആണ് അതും 35 അംപീയേറിൽ 250 വാട്ട് കോപ്പർ നഷ്ടം ആയും 1000 വാട്ട് യാന്ത്രിക നഷ്ടമായും കണക്കിൽ എടുത്ത് ഓരോ ഘട്ടത്തിലും 3 ഘട്ടം ആയി വലത്തോടുള്ള പ്രതിരോധം കണ്ടെത്തുക ഇവിടെ നമ്മൾ എന്താണ് ചെയുക n S120 fP അപ്പോൾ നമുക്ക് 1000 rpm ലഭികുമലോ സ്ലിപ് എന്ന് ഉള്ളത് Sn S nn S സ്ലിപ് എന്ന് ഉള്ളത് 4 അല്ലെങ്കിൽ 0 04 ആണ് ഇപ്പോൾ നമുക്ക് അറിയാം മുഴുവൻ ഉത്പാദനം എന്ന് ഉള്ളത് 25 hp ഹോഴ്സ് പവർ ആണ് അതായത് 746 വാട്ട് അല്ലെങ്കിൽ 18 65 കിലോവാട്ട് ആണ് ഇനി പൂർണമായ യാന്ത്രിക ഉത്പാദനം എന്ന് ഉള്ളത് 18 65 കോപ്പർ നഷ്ടത്തിന് നൽകിയിരിക്കുന്ന 250 വാട്ടും യാന്ത്രിക നഷ്ടത്തിന്റെ 1000 വാട്ടും ഇതിനെ ഇനി 1000 കൊണ്ട് ഹരികുക ഇനി ഇതിനെ കിലോവാട്ടിലേക്ക് മാറ്റുമ്പോൾ 19 9 കിലോവാട്ട് എന്ന് ലഭിക്കും ഇനി യാന്ത്രിക ഉത്പാദനം എന്ന് ഉള്ളത് റോട്ടർ കോപ്പർ നഷ്ടം 1 SS ഇത് നമ്മൾ നേരത്തെ കണ്ടത് ആണലോ അതിനാൽ റോട്ടർ കോപ്പറിന്റെ നഷ്ടം എന്ന് ഉള്ളത് S S യാന്ത്രിക ഉത്പാദനം ആവുന്നു അതായത് ഇത് 0 ഇനി ഈ മൂല്യങ്ങൾ നൽകുക അപ്പോൾ ഇത് നമുക്ക് 829 വാട്ട് എന്ന് ലഭിക്കും ഇവിടെ നീല മഷിയിൽ നൽകിയിരിക്കുന്ന 829 വാട്ട് നോക്കുക അതായത് 0 829 കിലോവാട്ട് എന്ന് ലഭിക്കും അപ്പോൾ ഇനി ഇവിടെ ഉള്ളത് ഈ നീല മഷിയിൽ കാണുന്ന 0 829 കിലോ വാട്ട് ആണ് അപ്പോൾ ഇവിടെയും 0 829 250 ആകുമലോ അതായത് 3 I2 2 r2829 250 ഈ നീല മഷിയിൽ കാണുന്നത് നമ്മൾ നോക്കേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 3 I2 2 r2എന്ന് ഉള്ളത് 829 ഹ്രസ്വ പരിവാഹ ഗതിയിലെ കോപ്പർ നഷ്ടം അതായത് 250 വാട്ട് അപ്പോൾ ഇവിടെ 3 I2 2 r 2 എന്ന് ഉള്ളത് 829 250 ആയിരിക്കും അത് റോട്ടറിന്റെ കോപ്പർ നഷ്ടം ആയിരിക്കും അതായത് 3 35 2 r2 അല്ലെങ്കിൽ 579 ആയിരിക്കും അപ്പോൾ r2 എന്ന് ഉള്ളത് 0 158 ഒഹ്മ് ആയിരിക്കും ഈ നീല മഷിയിൽ കാണുന്നതാണ് ശരിയായ ഉത്തരം ഇവിടെ ഉള്ള 250 കുറക്കേണ്ടതാണ് എന്ത്കൊണ്ടെന്നാൽ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കോപ്പർ നഷ്ടം ആയി 250 വാട്ട് പോകുന്നുണ്ട് എന്ന് ഇത് മുഴുവൻ വൈദ്യുതപ്രവാഹത്തിൽ നിന്നും മാറ്റിനിർത്തപ്പെടേണ്ടത് ആണ് അതിനാൽ നമ്മൾ കണക്ക് കൂടുമ്പോൾ ഇത് കുറക്കേണ്ടതാണ് ഇനി അടുത്ത ഉദാഹരണത്തിൽ ഒരു 440 വോൾട് 50 ഹാർട്സ് 60 പോൾ 3 ഘട്ടം വരുന്ന ഇൻഡക്ഷൻ യന്ത്രത്തിന്റെ വൈദ്യുത നിക്ഷേപണം 80 കിലോവാട്ട് ആണ് റോട്ടറിന്റെ emf വിദ്യുത്ചാലകബലം ഒരു നിമിഷത്തിൽ 100 വട്ടം ഇത്തരമാർഗ വ്യതിചലനം നേരിടുന്നു ഇങ്ങനെ എങ്കിൽ സ്ലിപ് റോട്ടറിന്റെ വേഗത വികസിപ്പിക്കപ്പെടുന്ന യാന്ത്രിക ശക്തി റോട്ടർ കോപ്പറിന്റെ ഓരോ ഘട്ടത്തിലെയും കുറവ് റോട്ടർ വൈദ്യുതചലനം 65 അംപീയെർ ആണ് എങ്കിൽ റോട്ടറിന്റെ ഓരോ ഘട്ടത്തിലെയും പ്രതിരോധം എന്നിവ കണ്ടെത്തുക

ഈ സാഹചര്യത്തിൽ വ്യാഖ്യാനം ആയി നൽകിയിരിക്കുന്നത് Sf2f എന്ന് ആണ് അതിനാൽ നമുക്ക് f2 10060 എന്ന് ലഭിക്കും എന്ത്കൊണ്ടെന്നാൽ ഓരോ മിനിറ്റിലും ഇത് 100 ഭ്രമണം ആണ് നടത്തുന്നത് അതായത് 100 60 ഭ്രമണം ഒരു നിമിഷത്തിൽ 50 കൊണ്ട് ഹരികുക അപ്പോൾ നമുക്ക് S S0 033 3 3 എന്ന് ലഭികുമലോ n S120 fP എന്നും ലഭിക്കുന്നു അപ്പോൾ സാധാരണ പോലെ തന്നെ 1000 rpm ആണ് ഈ വിവരങ്ങൾ അനുസരിച് n റോട്ടറിന്റെ വേഗത 1 S n അതായത് 1 0 അപ്പോൾ 967 rpm എന്ന് ലഭിക്കും ഇനി നോക്കേണ്ടത് യാന്ത്രികമായ വികസിത ശക്തി ആണ് അതായത് P m1 S PG ഇവിടെ P m80 കിലോ വാട്ട് അപ്പോൾ P m1 0 അതായത് 77 36 കിലോ വാട്ട് അല്ലെ ഇനി നമ്മൾ റോട്ടറിന്റെ ഓരോ ഘട്ടത്തിലെയും കോപ്പർ നഷ്ടം നോക്കുന്നു ഓരോ ഘട്ടത്തിലെയും ആണ് നോക്കുന്നത് അതിനാൽ ഒന്നിൽ മൂന്ന് സ്ലിപ് റോട്ടർ നിക്ഷേപണം അതായത് ഒന്നിൽ മൂന്ന് സ്ലിപ് 8 അതായത് 88 വാട്ട് അല്ലെങ്കിൽ 0 88 കിലോവാട്ട് ഇവിടെ ഉള്ളത് I2 2 r2 എന്ന് ആയിരിക്കും എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഓരോ ഘട്ടത്തിലെയും ആണ് അപ്പോൾ 3 ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ I2 2 r2880 അതിനാൽ r2 എന്ന് ഉള്ളത് 0 208 ഒഹ്മ് എന്ന് ലഭിക്കും വളരെ ലളിതമായ ചോദ്യം ആയിരുന്നു 6 ധ്രുവങ്ങൾ ഉള്ള ഒരു ഇൻഡക്ഷൻ യന്ത്രം 3 ഘട്ടങ്ങളിൽ 500 വിദ്യുച്ഛക്തിമാത്രയിൽ 50 ഹാർട്സിൽ 950 rpm ഉം 0 86 ശക്തി ഘടകവും ഉള്ളപ്പോൾ 20 ഹോഴ്സ് പവർ വികസിപ്പിക്കുന്നു പൂര്ണമായുമുള്ള യാന്ത്രിക നഷ്ടം എന്ന് ഉള്ളത് 1 hp അഥവാ 1 ഹോഴ്സ് പവർ ആണ് ഇങ്ങനെ ആണെങ്കിൽ ഇതിനുള്ള ലോഡ് സ്ലിപ് റോട്ടറിന്റെ കോപ്പർ നഷ്ടം പൂർണമായ സ്റ്റേറ്റർ നഷ്ടം 1500 വാട്ട് ആയിരിക്കുമ്പോൾ ഉള്ള നിക്ഷേപണം രേഖ വൈദ്യുതപ്രവാഹം എന്നിവ കണ്ടെത്തുക ആദ്യം ചോദ്യം എഴുതിയതെന്ന് ശേഷം നമുക്ക് ഇതിനെ വ്യാകരിക്കാം ഇപ്പോൾ നമുക്ക് അറിയാം n S120 fP എന്ന് ഇപ്പോഴത്തേതും പോലെ 1000 rpm ആണ് ഇവിടെയും വരുന്നത് ഈ സമവാക്യത്തിലൂടെ S എന്നത് നമുക്ക് 0 05 എന്ന് ലഭിക്കും അപ്പോൾ പൂർണമായി വികസിപ്പിക്കപ്പെട്ട യാന്ത്രിക ശക്തി എന്ന് ഉള്ളത് 20 ഇവിടെ ഉള്ള 1 hp കൂടെ കൂട്ടണമലോ അപ്പോൾ 21 1 h p അഥവാ 0 746 കിലോ വാട്ട് എന്ന് ലഭിക്കും അതായത് 15 666 കിലോ വാട്ട് ആയിരികുമലോ അപ്പോൾ PG റോട്ടറിന്റെ നിക്ഷേപണം P m1 S ഇവിടെ P m ഉം S ഉം ഇടുമ്പോൾ നമുക്ക് 16 5 കിലോ വാട്ട് എന്ന് ലഭികുമലോ റോട്ടറിന്റെ കോപ്പർ നഷ്ടം എന്ന് ഉള്ളത് SPG ആയിരിക്കും S ഉം PG ഉം ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇത് 0 825 കിലോ വാട്ട് ആയിരികുമലോ ഇനി S0 05 ആയതുകൊണ്ടും സ്റ്റേറ്റർ നിക്ഷേപം P G സ്റ്റേറ്റർ നഷ്ടങ്ങൾ ആയതുകൊണ്ടും PG എന്ന് ഉള്ളത് 16 5 ഉം സ്റ്റേറ്റർ നഷ്ടം എന്ന് ഉള്ളത് 1 5 ഉം ആയിരിക്കും അതായത് അപ്പോൾ 18 കിലോ വാട്ട് ആയിരികുമലോ അപ്പോൾ √3 V I 1 കോസ് ഫൈ 18 കിലോ വാട്ട് അപ്പോൾ 18 1000 അതായത് I 1 എല്ലാ വിവരങ്ങളും തന്നിരിക്കുന്നതിനാൽ തന്നെ 24 അംപീയെർ ആയിരികുമലോ ഇനി നമ്മൾ ഈ ചോദ്യത്തിൽ നോക്കുക ആണെങ്കിൽ ശക്തിയുടെ ഘടകം നൽകിയിരിക്കുന്നത് 0 അതുപോലെ തന്നെ SPG ഉം നൽകിയിട്ടുണ്ട് ഇതെല്ലം കണക്ക് കൂട്ടിയിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് മനസിലാക്കാം I1 സ്റ്റേറ്റർ വൈദ്യുതപ്രവാഹത്തിന് 24 അംപീയെർ ലഭിക്കുമെന്ന് ഇതാണ് ഈ പാഠത്തിലെ അവസാന ചോദ്യം ഒരു 8 പോൾ 50 ഹാർട്സ് 3 ഘടകം ഉള്ള ഇൻഡക്ഷൻ യന്ത്രത്തിന് തുല്യമായ അളവിൽ 0 07 ഒഹ്മ് റോട്ടർ പ്രതിരോധം ഉണ്ട് ഇത് നിന്നുപോവുന്ന വേഗത 630 rpm ആണെങ്കിൽ തുടക്കത്തിൽ തന്നെ പൂർണ ഭ്രമണം നേടാൻ എത്ര പ്രതിരോധം ആവശ്യമായി വരും കാന്തിക വൈദ്യുതപ്രവാഹത്തെ അവഗണിക്കുക അപ്പോൾ n S120 fP അതായത് ഇവിടെ അത് 8 പോൾ ആയിരികുമലോ അപ്പോൾ നമുക്ക് ഇവിടെ 750 rpm എന്ന് ലഭിക്കും എന്ത്കൊണ്ടെന്നാൽ f എന്ന് ഉള്ളത് 50 ഹാർട്സ് ആയിരിക്കും എന്ത്കൊണ്ടെന്നാൽ ഇത് സ്ലിപ് വരുമ്പോൾ ഉള്ള പൂർണമായ ഭ്രമണം ആണ് അതിനാൽ Smax Tn S nn S ഇനി n എന്ന് ഉള്ളത് നിൽക്കുന്ന വേഗത ആയത് കൊണ്ട് അതായത് ഭ്രമണം ഏറ്റവും അധികം ആയതിനാൽ ഇത് 630 rpm ആയിരിക്കും അപ്പോൾ ഇവിടെ 750 630750 അതായത് Smax T എന്ന് ഉള്ളത് 0 ഇവിടെ ഭ്രമണം ഏറ്റവും അധികം അല്ലെങ്കിൽ പൂർണം ആയതിനാൽ ഇത് നിൽകുമ്പോൾ ഉള്ള ഭ്രമണം ആണലോ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പഠിച്ചത് പോലെ r2x 2 SS max T ആയിരിക്കും അതുകൊണ്ട് തന്നെ x 2 എന്ന് ഉള്ളത് r20 16 ആയിരിക്കും അതായത് 0 16 അല്ലെങ്കിൽ 0 44 ഒഹ്മ് ആയിരിക്കും തുടക്കത്തിൽ S1 ആണെന്ന് നമുക്ക് അറിയാം അതിനാൽ തന്നെ r2x 2 0 44 ഒഹ്മ് ആയിരിക്കും ഇപ്പോൾ നമുക്ക് കൂട്ടേണ്ട പ്രതിരോധം ലഭിച്ചിരിക്കുന്നു 07അതായത് 0 പക്ഷെ ഇവിടെ നൽകിയിരിക്കുന്നു ഇതിന് തുല്യമായ റോട്ടർ പ്രതിരോധം ആയി 0 07 ഒഹ്മ് ഓരോ ഘട്ടത്തിലും ഉണ്ട് എന്ന് പക്ഷെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് 0 പക്ഷെ ഈ നൽകിയിരിക്കുന്ന 0 074 കുറക്കുക ആണ് വേണ്ടത് എന്തുകൊണ്ടെന്നാൽ ഇത് ഇവിടെ 0 37 ohm ആയി മാറുക ആണ് അതിനാൽ ഈ ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത് എത്ര പ്രതിരോധം ഓരോ ഘട്ടത്തിലും ഉൾപ്പെടുത്തണം എന്ന് ആയിരിക്കണം അതിനാൽ നമ്മൾ ഇവിടെ 0 37 ഒഹ്മ് പ്രതിരോധം കൂട്ടുക ആണ് ഇത് ചെയ്തില്ലെങ്കിൽ ഉത്തരം തെറ്റും ഇതിനെ ഇവിടെ കുറക്കുക കൂടെ വേണം ഇതോടെ നമുക്ക് ഇൻഡക്ഷൻ യന്ത്രം എന്ന വിഷയം അവസാനിപ്പിക്കാം എന്ന് ഇത് ആദ്യ വർഷ വിദ്യാർത്ഥികൾക്കായതിനാൽ കുറച്ചു പരിശ്രമം ആവശ്യമാണ് നിങ്ങൾ എല്ലാരും അത് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസവും ഉണ്ട് നിങ്ങൾക് എന്തെങ്കിലും പ്രശ്നം വരുക ആണെങ്കിൽ പ്രേത്യേകിച്ചു പുതിയ ഭാഗങ്ങളിൽ സ്ലൈഡ് സമയം 3033 നോക്കുക തുടക്കത്തിൽ ആദ്യമായി ഒക്കെ ചെയുമ്പോൾ കുറച്ചു കൂടുതൽ ശ്രദ്ധ കൊടുത്ത തന്നെ ചെയ്യാൻ നോക്കുക ഇതിൽ നിങ്ങൾക് എന്തെങ്കിലും ഒകെ സംശയങ്ങൾ വരുക ആണെങ്കിൽ ചോദ്യം വേദിയിൽ അവതരിപ്പിക്കുക നമുക്ക് എല്ലാ സംശയങ്ങളും സ്പഷ്ടമാകാം അകങ്ങളിൽ സംശയം വരുക ആണെങ്കിലും നിങ്ങൾക് അറിയിക്കാവുന്നതാണ് അതിനായി ഞാൻ നിങ്ങളോട്ട് ഒരു ഗ്രന്ഥം എടുക്കാൻ ആവശ്യപ്പെടുക ആണ് യന്ത്രമായി ബന്ധപ്പെട്ട ഏതൊരു പുസ്തകം എടുക്കുക ആണെങ്കിലും നിങ്ങൾക് ഇതെല്ലം കാണാൻ സാധിക്കും